നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് എ പ്രാക്ടിക്കൽ അപ്രോച്ച് Service Marketing A practical Approach എന്ന ഈ കോഴ്സിലേക്ക് സ്വാഗതം അതുകൊണ്ട് ഈ പാഠത്തിൽ സേവന ഉദ്യോഗസ്ഥരെയും ഉചിതമായ മാനവവിഭവശേഷി നയങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കും അതിനാൽ ഉചിതമായ മാനവവിഭവശേഷി നയങ്ങൾ എങ്ങനെ സേവന ഉദ്യോഗസ്ഥരെ വളർത്തിയെടുക്കുന്നതിൽ സഹായകമാകും എന്ന് നോക്കും സേവനങ്ങൾ നൽകുന്ന കമ്പനിയുടെ ജീവനക്കാർക്ക് അവരുടെ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിൽ ഗണ്യമായ പങ്കുണ്ട് മറ്റു കാര്യങ്ങൾക്കൊപ്പം സേവനം നൽകുന്നതിൽ അവർ വഹിക്കേണ്ട പങ്ക് വ്യക്തമായി അറിയുകയും ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിന് അത് ശരിയായി ചെയ്യുകയും വേണം ഉചിതമായ മാനവവിഭവശേഷി നയങ്ങൾ ഉൾപ്പെടുത്തുകയും നടപ്പിലാക്കുകയും വേണം ഉപഭോക്ത പ്രതീക്ഷകൾ വേഗത്തിൽ മനസ്സിലാക്കുകയും അവ കൃത്യമായും കാര്യക്ഷമമായും നിറവേറ്റുകയും ചെയ്യുന്ന ഒരു സംസ്കാരം മാനവവിഭവശേഷി നയങ്ങളിലൂടെയും പരിപാടികളിലൂടെയും സജ്ജമാക്കണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ സേവന ഉദ്യോഗസ്ഥർ സത്യത്തിൻറെ നിമിഷങ്ങളിൽ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നു അതിനാൽ സേവന ഉദ്യോഗസ്ഥരുടെ പ്രകടനം ഡെലിവറി ചെയ്യുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തിൻറെ കേന്ദ്രമായി മാറുന്നു നിർദിഷ്ട സേവന നിലവാരത്തിനും യഥാർത്ഥ ഡെലിവറിക്കും ഇടയിലുള്ള സേവന ഗുണനിലവാരം വിടവ് നമ്പർ 3 നല്ല മാനവവിഭവശേഷി നയങ്ങൾ ഉപയോഗിച്ചു പരിഹരിക്കാനാകുമെന്ന് മുമ്പത്തെ ഒരു പാഠത്തിൽ നാം ചർച്ച ചെയ്തിരുന്നു സേവന നിലവാരത്തിലെ മിക്ക മാനങ്ങളേയും സ്വാധീനിക്കാൻ സേവന ഉദ്യോഗസ്ഥർക്ക് കഴിയും സേവന ഉദ്യോഗസ്ഥർ വിശ്വസ്ഥർ ആയിരിക്കണം അതായത് വാഗ്ദാനം ചെയ്യുന്ന സേവനം വിശ്വസനീയമായും കൃത്യമായും നിർവഹിക്കാൻ കഴിയണം അവർ പ്രതികരിക്കുന്നവർ ആകണം അതായത് ഉപഭോക്തൃ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണാനും അവരെ സഹായിക്കാനും ഉടനടി സേവനം നൽകാനും തയ്യാറാകണം അവർ ഉപഭോക്താക്കളോട് അനുഭാവം ഉള്ളവരായിരിക്കണം ഹൃദയത്തിൽ മികച്ച താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുകയും അവർക്ക് വ്യക്തിപരമായ ശ്രദ്ധ നൽകുകയും ചെയ്യണം അവസാനമായി ഉപഭോക്താക്കളുമായി ഫലപ്രദമായി ഇടപഴകുന്നതിനും സേവനങ്ങൾ വാങ്ങുന്നതിൽ സംതൃപ്തിയും സന്തോഷവും നിലനിർത്തുന്നതിനും അവരുടെ വസ്ത്രധാരണരീതിയും വ്യക്തിത്വവും പ്രധാനമാണ് സേവന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ശരിയായ തരത്തിൽ ഉള്ള അനുഭവം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് നിരവധി മാനവവിഭവശേഷി നയങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ നയങ്ങൾ ചുവടെയുള്ള സ്ലൈഡിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു അവ ഇനി പറയുന്ന വിഭാഗങ്ങളിൽ ചർച്ച ചെയ്യും അപ്പോൾ എന്താണ് ഈ ഉചിതമായ മാനവവിഭവ നയങ്ങൾ അതിനാൽ മികച്ച ഗുണമേന്മയുള്ള സേവനം നൽകുന്നതിന് ആവശ്യമായ നയങ്ങൾ ഇവയാണ് അതിനാൽ ഇത്തരത്തിലുള്ള 4 നയങ്ങൾ ശരിയായ ആളുകളെ നിയമിക്കുക ഗുണനിലവാരം നൽകാൻ ആളുകളെ വളർത്തുക ആവശ്യമായ പിന്തുണ സംവിധാനങ്ങൾ നൽകുക മികച്ച ആളുകളെ നിലനിർത്തുക എന്നിവയാണ് അപ്പോൾ ശരിയായ ആളുകളെ നിയമിക്കുന്നതിൽ നാം മികച്ച ആളുകൾക്കായി മത്സരിക്കണം സേവനശേഷിക്കും സേവന താൽപര്യത്തിനു വേണ്ടി അന്വേഷിക്കുകയും മുൻഗണന ലഭിക്കുന്ന തൊഴിലുടമ ആവുകയും വേണം ഗുണനിലവാരം നൽകാൻ ആളുകളെ വികസിപ്പിക്കുന്നതിൽ നാം ജീവനക്കാർക്ക് സാങ്കേതികവും സംവേദനാത്മകവുമായ നൈപുണ്യങ്ങൾ പരിശീലിപ്പിക്കുകയും ജീവനക്കാരെ വളർത്തുകയും കൂട്ടായ പരിശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം അതിനാൽ മേൽപ്പറഞ്ഞ നയങ്ങൾ ഇപ്പോൾ വിശദമായി ചർച്ചചെയ്തിട്ടുണ്ട് ശരിയായ ആളുകളെ നിയമിക്കുക സേവന ജീവനക്കാർ ഉപഭോക്താക്കളുമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഓരോ ദിവസത്തെ സാഹചര്യങ്ങളും അവരുടെ വ്യക്തിപരമായ മാനസികാവസ്ഥയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കണക്കിലെടുക്കാതെ ഉപഭോക്ത ആവശ്യകതകൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് സേവന ജീവനക്കാർ വിശ്വസിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും വേണം മറ്റുള്ളവരെ സേവിക്കുന്നതിൽ ഉള്ള സന്തോഷം അവർ അനുഭവിക്കുകയും അങ്ങനെ ചെയ്യുന്നതിൽ ആനന്ദം അനുഭവിക്കുകയും ചെയ്തിരിക്കണം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്ന സേവന ജീവനക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട താല്പര്യം ഇതാണ് ഉപഭോക്താക്കളുമായും ബാഹ്യ പരിതസ്ഥിതികളും ആയും ബന്ധപ്പെട്ട് ഓർഗനൈസേഷന്റെ പുറത്ത് അറ്റത്ത് ബൌണ്ടറി സ്പാനിങ് റോളുകളിൽ നിൽക്കുന്ന സേവന ഉദ്യോഗസ്ഥർക്ക് ഉപഭോക്തൃ സേവനത്തെ പ്രവർത്തനങ്ങളും വിൽപ്പനയും ഉപയോഗിച്ച് കബളിപ്പിക്കുകയും അവർ ധാരാളം 'വൈകാരിക അധ്വാന'ത്തിന് വിധേയരാവുകയും ചെയ്യാം ഈ പദം ആർലി ഹോസ്ചൈൽഡ് 1983 ൽ ഉപയോഗിച്ചതാണ് അവർക്ക് ആർജ്ജവം ഉണ്ടായിരിക്കുകയും അവരുടെ ഉപഭോക്ത വിഭാഗത്തിന് പ്രധാനപ്പെട്ട മറ്റ് സാർവത്രിക മൂല്യങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഒരു നല്ല മനോഭാവം ഉണ്ടായിരിക്കണം അവർ മൊത്തത്തിൽ പ്രസന്നമായ വ്യക്തിത്വമുള്ളവരും സേവന തൽപരതയും ആരോഗ്യകരമായ സന്തോഷകരമായ പെരുമാറ്റവും അവർക്കുണ്ടായിരിക്കണം ശരിയായ ആളുകളെ നിയമിക്കുന്നതിന് കമ്പനിക്ക് താഴെ ചർച്ച ചെയ്യുന്ന തന്ത്രങ്ങൾ പിന്തുടരാൻ ആകും കഴിവുകൾക്കായി മത്സരിക്കുക എന്നതാണ് അടുത്തത് ലഭ്യമായ മികച്ച പ്രതിഭകളെ തിരിച്ചറിയാനും മറ്റ് കമ്പനികളോട് മത്സരിച്ച് അവരെ നിയമിക്കാനും നമ്മുടെ കമ്പനിക്ക് കഴിയും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലഭ്യമായ മികച്ച പ്രതിഭകളെ ലഭിക്കുന്നതിന് ഒരു പ്രത്യേക തസ്തികയിലേക്ക് നമ്മൾ നിരവധി ആളുകളെ വിലയിരുത്തണം തുടർന്ന് സേവന ശേഷിക്കും താൽപര്യത്തിനും വേണ്ടി അന്വേഷിക്കുക അവർ ഏറ്റെടുത്തിട്ടുള്ള വിവിധ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ആവശ്യമായ കഴിവുകൾ പ്രതീക്ഷിത ജീവനക്കാർക്ക് ഉണ്ടായിരിക്കണം ഒരു പ്രത്യേക ജോലി സ്ഥാനത്തിന് ആവശ്യമായ അറിവും വൈദഗ്ധ്യവും വിലയിരുത്താൻ കമ്പനിക്കകത്തുള്ള ഒരു ടെസ്റ്റ് നടത്താവുന്നതാണ് അതുപോലെതന്നെ സേവനദാതാവ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജീവനക്കാരന് മുമ്പ് ചർച്ച ചെയ്തതുപോലെ സേവനത്തോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കണം ഉയർന്ന ഗുണമേന്മയുള്ള സേവനങ്ങൾ നൽകുന്നതിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉയർന്ന സഹായമനസ്കതയും ചിന്താശേഷിയും സാമൂഹികതയും ഉള്ള ജീവനക്കാർ കൂടുതൽ അഭികാമ്യമാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലുടമ ആയിരിക്കുക ദീർഘവീക്ഷണമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കമ്പനിയിൽ ചേരാനും അതിനായി പ്രവർത്തിക്കാനും നോക്കണം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്നതിനും ആനന്ദിപ്പിക്കുന്നതിനും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നത് സംതൃപ്തരും സന്തുഷ്ടരൂമായ ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്നത് എല്ലാവർക്കുമറിയാം വ്യവസായത്തിലെ മികച്ച ശമ്പളം കമ്പനി സ്റ്റോക്ക് സ്വന്തമാക്കാനുള്ള അവസരം നൂതന കഴിവുകൾ പഠിക്കുന്നതിനുള്ള സാധ്യത അംഗീകാരം പ്രതിഫലം ഫീഡ്ബാക്ക് കരിയർ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും ഉള്ള സാധ്യത ദീർഘകാല കൂട്ടുകെട്ട് ഉദ്ദേശത്തോടൊപ്പം സൌഹൃദപരവും ക്രിയാത്മകവും കരുതൽ ഉള്ളതും പിന്തുണയ്ക്കുന്നതും ആയ ഒരു ആന്തരിക കാലാവസ്ഥ എന്നിവ കമ്പനിയെ ദീർഘവീക്ഷണമുള്ള ജീവനക്കാർക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള അവരുടെ ഒരു ഇഷ്ട റിക്രൂട്ട്റായി തീർക്കാൻ സഹായിക്കും സൌകര്യപ്രദമായ ജോലി സ്ഥലങ്ങളും സമയവും ജീവനക്കാരുടെ മക്കളെ വളർത്തുന്നതിനുള്ള സൌകര്യങ്ങൾ അവരുടെ ആരോഗ്യസംരക്ഷണം റെസ്റ്റ് റൂമുകൾ പോലെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഒക്കെ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്നതിലും ആശങ്കയില്ലാതെ സംരക്ഷിക്കുന്നതിലും പ്രധാനമാണ് അങ്ങനെ ഉപഭോക്താക്കൾക്കും കമ്പനിക്കും അവരുടെ ഏറ്റവും മികച്ചത് നൽകാൻ കഴിയും അടുത്തതായി മികച്ച ഗുണമേന്മയുള്ള സേവനങ്ങൾ നൽകാൻ ജീവനക്കാരെ നാം വികസിപ്പിക്കണം കമ്പനി ശരിയായ ജീവനക്കാരെ നിയമിച്ച് കഴിഞ്ഞാൽ അവരെ വിദഗ്ധ സേവന പ്രൊഫഷണലുകൾ ആയി വികസിപ്പിക്കാൻ അവരെ പരിശീലിപ്പിക്കുകയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയും വേണം ഇനി പറയുന്ന മൂന്നു തന്ത്രങ്ങൾ ഈ ദിശയിൽ സഹായിക്കും സാങ്കേതികവും സംവേദനാത്മകവുമായ കഴിവുകൾക്കായി പരിശീലിപ്പിക്കുക ഉചിതമായ അറിവും നൈപുണ്യവും മനോഭാവവും നൽകുന്നതിനും നവീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സേവന ഉദ്യോഗസ്ഥർക്ക് പതിവായി പരിശീലനം നൽകണം സമഗ്രത അതായത് സത്യസന്ധതയും പ്രതിബദ്ധതയും നടപ്പിലാക്കുകയും അളക്കുകയും വേണം കാരണം ഇത് സ്ഥാപനത്തിൻറെ വിശ്വാസ്യതയുടെയും സഹായത്തിൻറെയും അന്തരീക്ഷം നിലനിർത്തുന്നതിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒടുവിൽ കമ്പനി ലാഭത്തിൽ കലാശിക്കുന്നു ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും അവരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനും സേവന ഉദ്യോഗസ്ഥർക്ക് കഴിയണമെങ്കിൽ ഇൻറർപേഴ്സണൽ ലീഡർഷിപ്പ് ടീം വർക്കിംഗ് കഴിവുകൾ എന്നിവയും പ്രധാനമാണ് ജീവനക്കാരെ ശാക്തീകരിക്കുക ഉപഭോക്താക്കൾക്ക് സൌജന്യമായി സാധനങ്ങൾ നൽകാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ആഗ്രഹം കഴിവുകൾ ഉപകരണങ്ങൾ പരിശീലനം അധികാരം എന്നിവ ജീവനക്കാർക്ക് നൽകുന്നത് ഇതിൽ ഉൾപ്പെടുന്നു സേവന പ്രക്രിയകളുടെ ഉടമസ്ഥതയിൽ തങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതിനും അവരുടെ ഉപഭോക്താക്കളെ സേവിക്കുന്നതിലും സംതൃപ്തിപ്പെടുത്തതിലും ജീവനക്കാർക്ക് സന്തോഷം നൽകാൻ ശാക്തീകരണം സഹായിക്കുന്നു എന്തെങ്കിലും പരാജയപ്പെടുമ്പോൾ സേവനങ്ങൾ മികച്ച രീതിയിൽ വീണ്ടെടുക്കാൻ ശാക്തീകരിക്കപ്പെട്ട ജീവനക്കാർക്ക് സാധിക്കും ഉപഭോക്താക്കളുമായി അടുത്ത് പ്രവർത്തിക്കാനും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അവർക്ക് കഴിയും ഉപഭോക്താക്കൾക്ക് നമ്മുടെ സേവന ബിസിനസിനെ സംരക്ഷിക്കുന്നതിൽ ഇത്തരം ബിസിനസ് ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വിശ്വസ്തരായ ഉപഭോക്താക്കൾ നമ്മുടെ സേവനങ്ങൾ വീണ്ടും വാങ്ങാനും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ ഉപദേശിക്കാനും സേവന പരാജയം ഉണ്ടായാൽ പെട്ടെന്ന് ക്ഷമിക്കാനും കൂടുതൽ വില ഉള്ളത് അടയ്ക്കാനും നമ്മുടെ എതിരാളികളുടെ ഓഫറുകൾ അവഗണിക്കാനും സാധ്യതയുള്ളതിനാൽ ഇത് നമ്മുടെ കമ്പനിക്ക് ലാഭകരം ആണെന്ന് തെളിയിക്കാൻ ആകും അടുത്തതായി ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുക അടിസ്ഥാനപരമായി ഒരു ടീം എങ്ങനെയാണ് സേവനം നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ ജീവനക്കാരെ പഠിപ്പിക്കുന്നത് ഇതിലുൾപ്പെടുന്നു കൂടാതെ തൻറെ റോളും പ്രകടനവും എങ്ങനെയാണ് ഉപഭോക്താക്കളെ തങ്ങളുടെ സേവനത്തിൽ സംതൃപ്തരാക്കുകയും ആനന്ദിപ്പിക്കുന്നതെന്നും ഓരോ ജീവനക്കാരനും സങ്കൽപ്പിക്കണം സഹപ്രവർത്തകരുടെ അഭാവത്തിൽ പരസ്പരം നിറവേറ്റുന്നതിന് സേവന ഉദ്യോഗസ്ഥർക്ക് ഒന്നിലധികം നൈപുണ്യത്തിൽ പരിശീലനവും നൽകണം തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും സേവനം ചെയ്യുകയും സമയം കുറവുള്ള അവസരങ്ങളിൽ ഫ്ലെക്സി ടൈം ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യാം ബുദ്ധിമുട്ടുള്ള ജോലി ടീം അംഗങ്ങൾക്കിടയിൽ പങ്കിടാൻ കഴിയുമെന്നതിനാൽ സമ്മർദ്ദം ഒഴിവാക്കാനും ടീം വർക്കുകൾ സഹായിക്കുന്നു കൂടാതെ അവർക്ക് സേവനങ്ങൾ എത്തിക്കാനുള്ള മികച്ച വഴികൾ ചർച്ച ചെയ്യാനും വികസിപ്പിക്കാനും കഴിയും മൂന്നാമത്തെ കാര്യം ആവശ്യമായ പിന്തുണ സംവിധാനം നൽകുക എന്നതാണ് കമ്പനിയുടെ ആന്തരിക സംവിധാനങ്ങളും മറ്റ് സഹപ്രവർത്തകരും പിന്തുണക്കുമ്പോൾ ജീവനക്കാർക്ക് അവരുടെ ഉപഭോക്താക്കളെ നല്ല രീതിയിൽ സേവിക്കാൻ കഴിയും ഉദാഹരണത്തിന് കോൾ സെൻറർ ജീവനക്കാർക്ക് അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ ഉപഭോക്ത ഡേറ്റയും മറ്റു വിവരങ്ങളും ലഭിക്കുമ്പോൾ ഉപഭോക്തൃ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കും ഇനി പറയുന്ന തന്ത്രങ്ങൾ ഇക്കാര്യത്തിൽ സഹായിക്കും ആദ്യം ആന്തരിക സേവന നിലവാരം അളക്കുക ആത്യന്തിക ഉപഭോക്താക്കൾക്കായി സേവന പ്രകടനം നടപ്പിലാക്കുന്നതിന് ഓരോ ജീവനക്കാരനും കമ്പനിയിലെ മറ്റ് ജീവനക്കാരുടെ സേവനങ്ങൾ സ്വീകരിക്കുന്നു സേവന ജീവനക്കാർക്ക് അവർ മറ്റ് ഏതു ജീവനക്കാരെയാണ് സേവിക്കുന്നത് എന്നും ബാഹ്യ ഉപഭോക്താവിന് നൽകുന്ന സേവനത്തിൽ ആ സേവനം എങ്ങനെ സഹായിക്കുമെന്നും തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അവർ ആന്തരിക ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനത്തിൻറെ ഗുണനിലവാരം അളക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ജീവനക്കാരന് ഉപഭോക്താക്കളിൽ തിരക്കിലായിരുന്ന മറ്റൊരു ജീവനക്കാരന് വേണ്ട സാധനങ്ങൾ നൽകാം സാധനങ്ങൾ കൃത്യസമയത്ത് എത്താതിരിക്കുകയും ഇടയ്ക്കിടെ സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട നിരവധി കുഴപ്പങ്ങളും ആയി വളരെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടും മതിയായ വസ്തു വിവരപ്പട്ടിക ഉറപ്പാക്കുന്നതിലൂടെ പിന്തുണ പങ്കുവഹിക്കുന്ന ഒരു ആന്തരിക ജീവനക്കാരൻ യഥാർത്ഥത്തിൽ ബാഹ്യ ജീവനക്കാർക്ക് കൃത്യസമയത്ത് സേവനങ്ങൾ നൽകാൻ മുൻനിര ജീവനക്കാരനെ സഹായിക്കുന്നു പിന്തുണയ്ക്കുന്ന സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും നൽകുക ഉപഭോക്തൃ ആവശ്യങ്ങളോട് കൂടുതൽ പ്രതികരണാത്മകമായ സേവനങ്ങൾ നൽകാൻ ജീവനക്കാരെ സഹായിക്കാൻ ഇത്തരം ഉപകരണങ്ങൾ സഹായിക്കും ഉദാഹരണത്തിന് ജീവനക്കാർക്ക് മൊബൈൽഫോൺ നൽകുന്നതിലൂടെ ഒന്നിലധികം ഗുണങ്ങളുണ്ട് ആവശ്യനേരത്ത് കമ്പനിക്ക് അവരുമായി ബന്ധപ്പെടുവാനും ഉപഭോക്താക്കൾക്ക് സാധാരണ അല്ലെങ്കിൽ സേവന സമയത്തിന് അപ്പുറം അവരെ ബന്ധപ്പെടാനും കഴിയും ഇത് ഉപഭോക്താക്കൾക്ക് സേവന ജീവനക്കാരുമായി 24 7 ആക്സസ് നൽകുന്നു അതുവഴി ഉപഭോക്താക്കൾക്കും ലാഭിച്ച ഓവർടൈം വേതനത്തിൽ കമ്പനിക്കും വളരെ പ്രയോജനം ചെയ്യുന്നു സേവനാധിഷ്ടിത ആന്തരിക പ്രക്രിയകൾ വികസിപ്പിക്കുക ഉപഭോക്ത കേന്ദ്രീകൃതമായി നിലനിർത്തുന്നതിന് ഉപഭോക്താക്കളുടെയും കോൺടാക്ട് സേവന ഉദ്യോഗസ്ഥരുടെയും ഫീഡ്ബാക്ക് ഉപയോഗിച്ച് സേവന ബ്ലൂ പ്രിൻറ് പതിവായി അപ്ഡേറ്റ് ചെയ്യണം ചില സമയങ്ങളിൽ പഴയ പ്രക്രിയകൾ അനാവശ്യമോ കാര്യക്ഷമതയില്ലാത്തതോ ആയി മാറിയേക്കാം ഉപഭോക്താക്കൾക്ക് മൂല്യം എത്തിക്കുന്നതിൽ കാര്യക്ഷമവും ഫലപ്രദവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂല്യവർധിതമല്ലാത്ത പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ അത്തരം പ്രക്രിയകൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട് നാലാമത്തേത് മികച്ച ജീവനക്കാരെ നിലനിർത്തുക എന്നതാണ് ഒരു കമ്പനി തൻറെ ജീവനക്കാരെ പരിശീലിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവനക്കാരുടെ വിറ്റുവരവ് കമ്പനിയെ ഒന്നിലധികം തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ അവരെ നിലനിർത്തേണ്ടത് പ്രധാനമാണ് സന്തോഷവും പരിശീലനവും വിശ്വസ്തതയും ഉള്ള സേവന ഉദ്യോഗസ്ഥർക്ക് ഉപഭോക്താക്കളെ കൂടുതൽ ഫലപ്രദമായും കാര്യക്ഷമമായും സേവിക്കാൻ കഴിയണം അതേസമയം ചെലവ് കുറയ്ക്കുകയും വരുമാനവും ലാഭവും വർധിപ്പിക്കുകയും ചെയ്യുന്നു സേവന ലാഭ ശൃംഖലയിലെ സുപ്രധാന കണ്ണിയാണ് അവ 1994 ൽ പ്രൊഫസർമാരായ ഹെസ്കേറ്റ് ജോൺസ് ലവ്മെൻ സാസർ ശ്ളേസിംഗെർ എന്നിവർ മുന്നോട്ടു വെച്ചതാണ് ഈ ആശയം അതിനാൽ ഇതാണ് സേവന ലാഭ ശൃംഖല ഇതിൽ നമുക്ക് ആന്തരിക സേവന ഗുണനിലവാരം ഉണ്ട് അതിനർത്ഥം പിന്തുണയ്ക്കുന്ന ജീവനക്കാർ ആന്തരിക ജീവനക്കാരെ നന്നായി സേവിക്കുകയും ജീവനക്കാരുടെ സംതൃപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ജീവനക്കാരുടെ സംതൃപ്തി ജീവനക്കാരുടെ നിലനിൽപ്പിനും ജീവനക്കാരുടെ വളരെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയ്ക്കും കാരണമാകുന്നു ജീവനക്കാരുടെ നിലനിർത്തലും ഉൽപ്പാദനക്ഷമതയും ബാഹ്യ സേവന മൂല്യത്തിലേക്ക് നയിക്കുന്നു അതു ഉപഭോക്തൃ സംതൃപ്തിയിലേക്കും നയിക്കുന്നു അത് പിന്നീട് ഉപഭോക്തൃ വിശ്വസ്തതയിലേക്ക് നയിക്കുന്നു ഇത് വരുമാന വളർച്ചയ്ക്കും ലാഭത്തിനും കാരണമാകുന്നു ഇവയിൽ നിന്നെല്ലാം ആരോ വീണ്ടും ആന്തരിക സേവന ഗുണനിലവാരത്തിലേക്കും ജീവനക്കാരുടെ സംതൃപ്തിയിലേക്കും പോകുന്നു അതിനാൽ വരുമാന വളർച്ചയും ലാഭവും നയിക്കുന്ന ആദ്യത്തേത് ആന്തരിക സേവന ഗുണനിലവാരം ആണെന്ന് കാണിക്കുന്ന സേവന ലാഭ ശൃംഖല ആണിത് അതിനാൽ വരുമാന വളർച്ചയും ലാഭവും ലഭിക്കുന്നതിനുള്ള താക്കോൽ ആഭ്യന്തര സേവന ഗുണനിലവാരവും ആന്തരിക ജീവനക്കാരുടെ സംതൃപ്തിയും ഉണ്ടായിരിക്കുക എന്നതാണ് അവർക്ക് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയും അവർ വിശ്വസ്തരും കമ്പനി അധികം വൈകാതെ ലാഭകരമായി തീരുകയും ചെയ്യും അതിനാൽ മികച്ച ജീവനക്കാരെ നിലനിർത്താൻ ഉപയോഗിക്കാവുന്ന ചില തന്ത്രങ്ങൾ ഇതാ കമ്പനിയുടെ കാഴ്ചപ്പാടിൽ ജീവനക്കാരെ ഉൾപ്പെടുത്തുക കമ്പനിയുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിലും അല്ലെങ്കിൽ നയിക്കുന്നതിനും ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നത് ഇതിലുൾപ്പെടുന്നു ഇത് ജീവനക്കാർക്ക് കമ്പനിയുടെ ഉടമസ്ഥാവകാശം നൽകുന്നു സ്വന്തം അഭിവൃദ്ധിക്കായി ഹരിതാഭമായ മേച്ചിൽപുറങ്ങൾ തേടി പോകുന്നതിനു പകരം കമ്പനിയെ വലിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ അവർ ശ്രമിക്കുന്നു ജീവനക്കാരെ ഉപഭോക്താക്കളായി പരിഗണിക്കുക ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ ജീവിതത്തിലൂടെയും അല്ലാത്ത ജീവിതത്തിലൂടെയും പിന്തുണ നൽകുന്നത് ഇതിലുൾപ്പെടുന്നു അങ്ങനെ അവർക്ക് കമ്പനിക്ക് വേണ്ടി ആശങ്കകൾ ഇല്ലാതെ പ്രവർത്തിക്കാനും കമ്പനിയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും തങ്ങളെത്തന്നെ ബന്ധപ്പെടുത്താനും കഴിയും ശക്തമായ സേവനപ്രവർത്തനം അളക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുക ഉപഭോക്തൃ സംതൃപ്തി സ്കോർ അടിസ്ഥാനമാക്കി ജീവനക്കാർക്ക് പ്രതിഫലം നൽകാം ഉപഭോക്താക്കളോട് വിവിധ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച യഥാർത്ഥ സേവനങ്ങളെക്കുറിച്ചു ചോദിക്കുകയും അതനുസരിച്ച് ജീവനക്കാർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യാം പരസ്പര ആനുകൂല്യങ്ങൾക്കായി കമ്പനിക്കും അതിൻറെ ഉപഭോക്താക്കൾക്കും വേണ്ടി ജോലി ചെയ്യാൻ ജീവനക്കാർക്ക് താല്പര്യം ഉണ്ടാക്കാൻ അത്തരം പ്രോത്സാഹനങ്ങൾക്ക് കഴിയും ഈ പാഠത്തിൽ സേവന ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പ്രധാന പങ്ക് നമ്മൾ ചർച്ച ചെയ്തു ആളുകൾ എന്ന മൂന്നാമത്തെ പി ക്ക് രണ്ട് ഘടകങ്ങളുണ്ട് ആദ്യ ഘടകം സേവന ഉദ്യോഗസ്ഥരും രണ്ടാമത്തെ ഘടകം സേവനം ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്താക്കളുമാണ് അടുത്ത പാഠത്തിൽ നമ്മൾ ഉപഭോക്താക്കളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി ചർച്ച ചെയ്യും ഇത് കേട്ടതിന് വളരെ നന്ദി അടുത്ത പാഠത്തിലേക്ക് അടുത്ത സ്ലൈഡിൽ നമ്മൾ പോകും നന്ദി